ശുഭദിനം സുഹൃത്തുക്കളെ ഞാനാണ് ബിനോദ് മിശ്ര സോഫ്റ്റ് സ്കിൽസിനെക്കുറിച്ചുള്ള എന്റെ പ്രഭാഷണങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുള്ളതുപോലെ മുമ്പത്തെ പ്രഭാഷണങ്ങളിൽ നമ്മൾ ഗ്രൂപ്പ് ആശയവിനിമയത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു ഇന്ന് നാം ഗ്രൂപ്പ് ആശയവിനിമയത്തിന്റെ മറ്റൊരു പ്രധാന രൂപത്തെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നു അതിനെ ഗ്രൂപ്പ് ചർച്ച എന്ന് വിളിക്കാം ഗ്രൂപ്പ് ചർച്ച എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ നമുക്കെല്ലാവർക്കും ഗ്രൂപ്പുകൾ രൂപീകരിക്കാനുള്ള പ്രവണതയുണ്ട് എന്നാൽ നിങ്ങൾ ഗ്രൂപ്പുകളായിരിക്കുമ്പോൾ നിങ്ങൾ എന്തുചെയ്യുന്നു നിങ്ങൾ എല്ലായ്പ്പോഴും ഒരു പ്രവർത്തനം ചെയ്യുക മാത്രമല്ല ചില സമയങ്ങളിൽ നിങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു അതിനാൽ ലളിതമായി പറഞ്ഞാൽ ഒരുപക്ഷേ നമ്മൾ സംസാരിക്കുമ്പോൾ അത് ചർച്ചയുടെ ഭാഗമായിട്ടല്ല വരുന്നത് മറിച്ച് അത് നമ്മുടെ അനുഭവങ്ങളും വികാരങ്ങളും പങ്കിടുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്നാൽ ഒരേ പങ്കിടലിനും അനുഭവങ്ങൾക്കും ഒരു ഔപചാരികത ലഭിക്കുമ്പോൾ അതിനെ ഗ്രൂപ്പ് ചർച്ച എന്ന് വിളിക്കുന്നു അപ്പോൾ ചർച്ച എന്ന വാക്ക് ഇവിടെ വളരെ പ്രധാനമാണ് ഇത് നിങ്ങളിൽ പലർക്കും സംവാദങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച നിങ്ങളുടെ സ്കൂൾ ദിവസങ്ങളിലേക്ക് തിരികെ കൊണ്ടുപോകുന്നു അതിനാൽ ഗ്രൂപ്പ് ചർച്ചയെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് നമുക്ക് സംവാദങ്ങളെ പറ്റി പറയാം കാരണം സംവാദങ്ങളും ഗ്രൂപ്പ് ചർച്ചകളും തമ്മിൽ വേർതിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ് മിക്കപ്പോഴും നമ്മളിൽ പലരും ഇതിനെ പറ്റി ആലോചിച്ചു ആശയക്കുഴപ്പത്തിലാകുന്നുണ്ട് ചർച്ച എന്ന പദത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചർച്ച അറിവിന്റെ കൈമാറ്റമാണെന്ന് നമുക്ക് പറയാൻ കഴിയും സുഹൃത്തുക്കളേ നമ്മൾ ചർച്ചചെയ്യുന്നു ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ചില വിവരങ്ങൾ അല്ലെങ്കിൽ ചില അറിവുകൾ പങ്കിടുന്നു എല്ലാ വ്യക്തികൾക്കും വ്യത്യസ്ത തരത്തിലുള്ള അനുഭവങ്ങളുണ്ട് അതിനാൽ അവരുടെ വിജ്ഞാന നിലവാരവും വ്യത്യസ്തമാണ് മുമ്പത്തെ പ്രഭാഷണത്തിൽ ഗ്രൂപ്പുകൾ എങ്ങനെ ഔപചാരികമാക്കാം ഗ്രൂപ്പുകൾ എങ്ങനെ അനൌപചാരികമാകാം എന്നതിനെക്കുറിച്ചും നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അതിനാൽ നിങ്ങൾ ഒരു കപ്പ് ചായയെക്കുറിച്ച് ചർച്ചചെയ്യുമ്പോൾ അതായത് ഒരുതരം അനൌപചാരിക ചർച്ചയ്ക്ക് വിധേയമാകുമ്പോൾ മറ്റ് ചില വിഷയങ്ങളും അതിനോടൊപ്പം കൊണ്ടുവരുന്നതിനായി നിങ്ങളുടെ സംസാരരീതി മാറ്റാൻ നിങ്ങൾക്ക് ചില സ്വാതന്ത്ര്യങ്ങളുണ്ട് എന്നാൽ നിങ്ങൾ ഔപപചാരികമായി ചർച്ച ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ അതിനെ ഗ്രൂപ്പ് ചർച്ച എന്ന് വിളിക്കുന്നു ഇപ്പോൾ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന മറ്റു കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഗ്രൂപ്പ് ചർച്ച വളരെ പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണ് അതിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് ഒരു ചർച്ചയിൽ നമ്മൾക്ക് എങ്ങനെ പങ്കെടുക്കാം എന്നതൊക്കെയാണ് നിങ്ങൾ ഒരു തൊഴിൽ മേളയ്ക്ക് പോകുന്നുവെന്ന് സങ്കൽപ്പിക്കുക റിക്രൂട്ട് ചെയ്യുന്നതിനായി കാത്തിരിക്കുന്ന ധാരാളം നല്ല സ്ഥാനാർത്ഥികൾ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു പ്രത്യേകിച്ചും പല ഓർഗനൈസേഷനുകളും ഇപ്പോൾ അവർ യഥാർത്ഥത്തിൽ ജിഡി നടത്തുന്നത് പതിവാക്കി ചില സ്ഥാനാർത്ഥികളെ ഒഴിവാക്കുന്നതിനോ അല്ലെങ്കിൽ ചില സ്ഥാനാർത്ഥികളെ ഹ്രസ്വ പട്ടികപ്പെടുത്തുന്നതിനോ ഒരു മാനദണ്ഡം ആണിത് ആപ്ലിക്കേഷനുകളുടെ എണ്ണം വളരെയധികം ഉള്ളതുകൊണ്ട് പല ഓർഗനൈസേഷനുകളിലും ഒരു ഫോർമുല പിന്തുടരുന്നു കാരണം അവിടെ പരിമിതമായ എണ്ണം ഒഴിവുകൾ മാത്രമാണ് ഉള്ളത് അതിനാൽ അവർ ചെയ്യുന്നത് ജിഡിയിലൂടെയും അതിനു ശേഷം ചില പരീക്ഷകളിലൂടെയും ആദ്യ സന്ദർഭത്തിൽ ഷോർട്ട്ലിസ്റ്റ് ചെയ്യും അതിനുശേഷം മറ്റ് ചില പരിശോധനകളും നടത്തും എന്നാൽ ജിഡിക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന നിരവധി ഓർഗനൈസേഷനുകൾ ഉണ്ട് കാരണം അങ്ങനെ വിലയിരുത്താൻ ചില കാര്യങ്ങളുണ്ട് അതിനാൽ ആഗോളവത്കരിക്കപ്പെട്ട ലോകത്തിലെ ഒരു സ്ഥാനാർത്ഥിയെന്ന നിലയിൽ അല്ലെങ്കിൽ നിങ്ങൾ ജോലിചെയ്യുന്ന ഇടത്തുനിന്നും മാറുന്നതിനു വേണ്ടിയും ഒരു ജിഡി എന്താണെന്നും നിങ്ങൾ എങ്ങനെ ഒരു ജിഡിയിൽ പങ്കെടുത്തു വിജയിക്കുമെന്നും അറിഞ്ഞിരിക്കണം ഇപ്പോൾ ജിഡി എന്ന വാക്കിലേക്ക് പോകുമ്പോൾ അത് ഒരു ഗ്രൂപ്പ് ചർച്ചയാണെന്ന് നമ്മൾ പറയുന്നു ഇത് രണ്ട് ആളുകൾ തമ്മിലുള്ള ചർച്ചയല്ല എണ്ണത്തിനനുസരിച്ച് ഗ്രൂപ്പുകൾ വലുതായിരിക്കാമെന്നും ഗ്രൂപ്പുകൾ ഹ്രസ്വമാകാമെന്നും നമ്മൾ കണ്ടെത്തും അതിനാൽ ഇത് യഥാർത്ഥത്തിൽ ഒരു ഗ്രൂപ്പിലെ ചർച്ചയാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത് സംവാദങ്ങൾ ജിഡിയിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നതാണ് നിങ്ങൾ ഇത് നല്ലപോലെ മനസിലാക്കണം കാരണം നിങ്ങളുടെ സ്കൂൾ കാലത്തും ഇന്റർമീഡിയറ്റ് തലത്തിലും നിരവധി സംവാദങ്ങളിൽ പങ്കെടുത്തിരുന്നു അല്ലേ അതിനാൽ നിങ്ങൾ ഒരു സംവാദത്തിൽ പങ്കെടുത്തപ്പോൾ നിങ്ങളുടെ വിഷയം നന്നായി തയ്യാറാക്കിയിരുന്നു തയ്യാറെടുപ്പിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു സംവാദത്തിൽ നിങ്ങൾക്ക് ഓപ്ഷൻ നൽകിയിട്ടുണ്ട് ഒരു ഓപ്ഷൻ ഉണ്ട് കൂടാതെ അവർ നിങ്ങൾക്ക് ഒരു പ്രശ്നം നൽകുന്നു അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് ഒരു വിഷയം നൽകുന്നു വിഷയത്തിന് വേണ്ടി സംസാരിക്കുന്ന സ്ഥാനാർത്ഥികളുണ്ട് വിഷയത്തിന് എതിരായി സംസാരിക്കുന്ന സ്ഥാനാർത്ഥികളുണ്ട് ഇതിനെ അവർ സ്വീകാര്യമായവർ എന്നും എതിർക്കുന്നവർ എന്നും പറയുന്നു അവർ ഒരു സംവാദത്തിൽ പങ്കെടുക്കുമ്പോൾ ഒരു സ്ഥാനാർത്ഥി സംസാരിക്കുകയാണെങ്കിൽ അദ്ദേഹം പ്രമേയത്തിനായി സംസാരിക്കുന്നത് തുടരുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ആരെങ്കിലും അതിനെതിരെ സംസാരിക്കുകയാണെങ്കിൽ അതിനുവേണ്ടിയോ പ്രതികൂലമായോ അവർ യഥാർത്ഥത്തിൽ വസ്തുതകൾ ശേഖരിക്കുന്നു അല്ലെങ്കിൽ അവർ ചില വാദങ്ങൾ ശേഖരിക്കുന്നു ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഈ വാദം ഉണ്ടെന്ന് തോന്നിയേക്കാം കാരണം നിങ്ങൾ എതിർപ്പ് പ്രകടിപ്പിക്കാൻ പോകുന്നതിനാൽ ഒരു എതിരാളിയെന്ന നിലയിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ ആ വാദത്തിന് വിരുദ്ധമായ ഓപ്ഷൻ നിങ്ങൾക്കുണ്ട് അതിനാൽ നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം ചോയ്സ് ഉണ്ടായിരിക്കാം നിങ്ങൾ ശേഖരിക്കുന്ന എല്ലാ വാദങ്ങളും അതിനായിരിക്കും അതേസമയം എതിർക്കുന്ന മറ്റ് കക്ഷികൾ എതിരായി സംസാരിക്കും യുക്തി കൊണ്ടുവന്ന് വാദങ്ങൾ കൊണ്ടുവന്ന് വാദങ്ങൾ ഉന്നയിച്ച് അവരുടെ ആശയങ്ങൾ തെളിയിക്കാൻ അവർ ശ്രമിക്കും എന്നാൽ ഇത് ഒരു ജിഡിയിലല്ല കാരണം ഈ ജിഡി ഒരു ഔപചാരിക പ്രഭാഷണമാണ് അതിനാൽ രണ്ട് കേസുകളിലും ഔപചാരികതയുണ്ട് അതിനാൽ ഒരു ജിഡിയിൽ ചർച്ച ഒരു മുഖാമുഖ ചർച്ചയാണ് കൂടാതെ ചർച്ചയും ഔപചാരികമാണ് ജിഡിയും ഔപപചാരികമാണ് എന്നാൽ വ്യത്യാസം കാണിക്കുമ്പോൾ നിങ്ങൾ ഒരു സംവാദത്തിൽ ചില സമയങ്ങളിൽ വളരെ വികാരാധീനനായിത്തീരും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഭാഷയും വളരെ നല്ലതായിരിക്കും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ കൊണ്ടുവരുന്ന നല്ല വാക്കുകൾ കാരണം നിങ്ങളുടെ പോയിന്റ് തെളിയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാൽ ഒരു ജിഡിയിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ വസ്തുതകൾ ഉദ്ധരിക്കേണ്ടതുണ്ട് കാരണം ഇത് ഒരു ഔപചാരിക ചർച്ചയാണ് ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്ന പങ്കാളികളുടെ ഒരു മുഖാമുഖ ആശയവിനിമയമാണ് വിഷയം ഇപ്പോൾ എന്താണെന്ന് ഉള്ളതാണ് ചോദ്യം ഇത് ഒരു സംവാദമാകുമ്പോൾ സംവാദം നടത്തുന്ന സംഘടന അവർ നിങ്ങൾക്ക് വിഷയം നൽകുന്നു ഈ വിഷയം നിങ്ങൾക്ക് മുൻകൂട്ടി നൽകുന്നത് ഒരാഴ്ച മുൻപ് ആയിരിക്കാം അവർ യഥാർത്ഥത്തിൽ വ്യത്യസ്ത രീതികളിൽ പരസ്യം ചെയ്യുന്നു ഒരുപക്ഷേ അവർ നിങ്ങൾക്ക് പത്തുദിവസം തരും നിങ്ങൾ തയ്യാറെടുക്കുന്ന ഈ പത്ത് ദിവസങ്ങൾ നിങ്ങൾ ഒരു ശക്തമായ സംവാദകനാണെന്ന് കാണിക്കാൻ നിങ്ങളുടെ മുഴുവൻ മനസ്സും ഉപയോഗിക്കണം എന്നാൽ നിങ്ങൾ ഒരു തൊഴിൽ മേളയ്ക്ക് പോകുന്നുവെന്നും ആദ്യ കടമ്പ ജിഡിയാണെന്നും കരുതുക നിരവധി വിഷയങ്ങൾ ഉണ്ടെന്ന് കരുതുക പല അവസരങ്ങളിലും വിഷയം യഥാർത്ഥത്തിൽ ആ സ്ഥലത്തുതന്നെ പ്രഖ്യാപിക്കപ്പെടുന്നു അത് ആ സമയത്തു തന്നെ പ്രഖ്യാപിക്കപ്പെടുന്നു കാരണം റിക്രൂട്ട് ചെയ്യുന്നവർ യഥാർത്ഥത്തിൽ പലതും വിധിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അതിൻറെ കൂടുതൽ വിശദീകരണത്തിൽ കടക്കുന്നതിന് മുമ്പ് ജി ഡിയുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഡി എന്നത് ഒരു സംഭാഷണ പഠന പ്രക്രിയയാണ് ഇത് ഒരു ഡയലോഗിക് പഠന പ്രക്രിയയാണ് ഡയലോഗിക് എന്ന ഈ പദംകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾക്കറിയാമോ ഡയലോഗിക് എന്നാൽ ഉടനീളം ഒരു വ്യക്തി സംസാരിക്കുന്നത് അല്ല മാത്രമല്ല ധാരാളം ആളുകൾ ഉണ്ട് ഇത് ഒരു ഡയലോഗ് രൂപത്തിലാണ് കൂടാതെ ഈ ഡയലോഗ് ഫോം നിരവധി ആളുകൾക്കിടയിലാണ് ഈ ഡയലോഗ് രൂപത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴും ഒരു സംവാദമുണ്ടാകുമ്പോഴും അനുകൂലമായും പ്രതികൂലമായും സംസാരം ഉണ്ടാവും അതേ സമയം ചർച്ചയിൽ ധാരാളം ആളുകൾ തമ്മിൽ മത്സരം ഉണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തും അതിനാൽ ചില സമയങ്ങളിൽ ഇവിടെ ഒരു മത്സര സ്വരം ഉണ്ട് മറ്റ് സ്ഥാനാർത്ഥികളെ മറികടക്കാൻ ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ അത്തരമൊരു രീതിയിൽ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്നു ചില സമയങ്ങളിൽ ഭാഷയും നിശിതമാണ് അർത്ഥം ഉപയോഗിച്ച് മഫ്ലിംഗ് ചെയ്യും ചിലപ്പോൾ ഭാഷ ആക്ഷേപഹാസ്യമായി മാറുന്നുവെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ ഒരു ജിഡിയിൽ ഇത് ഒരു സഹകരണ അന്തരീക്ഷമാണ് അതിനാൽ ജിഡിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കുമിടയിൽ ഇത് ഒരു സഹകരണ അന്തരീക്ഷമാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ എത്രപേർ ജിഡിക്ക് എത്ര സമയം നൽകി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ പങ്കെടുക്കുന്നവരുടെ എണ്ണം അനുസരിച്ച് സാധാരണയായി ഇത് മാറും ഒരു ജിഡി ഓർഗനൈസുചെയ്യുമ്പോൾ ആദ്യം ഒരു ഇരിപ്പിട ക്രമീകരണം ഉണ്ട് ഈ ഇരിപ്പിട ക്രമീകരണം യഥാർത്ഥത്തിൽ ഈ ജിഡി നടത്തുന്ന ആളുകളാണ് നൽകുന്നത് അതിനാൽ ഈ ഇരിപ്പിട ക്രമീകരണം ചിലപ്പോൾ വൃത്താകൃതിയിലായിരിക്കാം ആളുകൾ ചിലപ്പോൾ വൃത്താകൃതിയിൽ ഇരിക്കുമെന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് ഇത് അർദ്ധ വൃത്താകൃതിയിൽ ആയിരിക്കാം പങ്കെടുക്കുന്നവരെല്ലാം ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കേണ്ടതാണ് അവർ എല്ലാവരും കാണേണ്ട രീതിയിൽ ഇരിക്കണം ഗ്രൂപ്പിലെ മറ്റ് വ്യക്തികൾ മുഖാമുഖം കാണാൻ പാകത്തിന് ഇരിക്കണം ഒരു ജിഡിയിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം ചില സമയങ്ങളിൽ 7 മുതൽ 10 വരെ ആയിരിക്കാം ജിഡിയിലൂടെ നിങ്ങളെ വിധിക്കാൻ പോകുന്ന ആളുകളെ നിങ്ങൾക്കറിയാമെന്നതിനാൽ ഇത് സംഭവിക്കുന്നു അവർ ചില പ്രത്യേകതകൾ സ്ഥാനാർത്ഥികൾക്ക് ഉള്ള ചില ഗുണങ്ങൾ എന്നിവ തേടുന്നു മാത്രമല്ല നിങ്ങൾ ഒരു ജിഡിയിൽ ഇരിക്കുമ്പോൾ വിഷയം പ്രഖ്യാപിച്ചു എന്ന് കരുതുക ആദ്യം അവർ നിങ്ങൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിട ക്രമീകരണമാണ് നൽകുന്നത് തുടർന്ന് വിഷയം പ്രഖ്യാപിക്കും ഇപ്പോൾ വിഷയം പ്രഖ്യാപിക്കുമ്പോൾ ജിഡിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും കുറച്ച് സമയം അല്ലെങ്കിൽ കുറച്ച് മിനിറ്റ് നൽകപ്പെടും ഈ കുറച്ച് മിനിറ്റുകളിൽ ആളുകൾ ചിന്തിക്കേണ്ടതാണ് കാരണം ജിഡി വിഷയത്തിൽ ചില വാക്കുകൾ ഉണ്ട് അത് നിങ്ങളുടെ ചിന്തകളെ യഥാർത്ഥത്തിൽ ജ്വലിപ്പിച്ചേക്കാം അവ കീവേഡുകളായി കണക്കാക്കാം ജിഡി ആരംഭിക്കുമ്പോൾ ആളുകൾ അവരുടെ കാഴ്ചപ്പാടുകളും അനുഭവങ്ങളും പങ്കിടാൻ തുടങ്ങും കൂടാതെ നമ്മൾ പറഞ്ഞതുപോലെ ആളുകളുടെ പശ്ചാത്തലവും ആളുകളുടെ എണ്ണവും വ്യത്യസ്തമാണ് ആളുകൾ വ്യത്യസ്ത പശ്ചാത്തലത്തിൽ നിന്നുള്ളവരാണെന്നത് ഗ്രൂപ്പുകൾക്ക് ഒരു നേട്ടമാണ് അവരുടെ അറിവ് വ്യത്യസ്തമാണ് അവരുടെ അവതരണശൈലിയും വ്യത്യസ്തമാണ് അതിനാൽ അവരുടെ പെരുമാറ്റം വ്യത്യസ്തമാണ് മാത്രമല്ല ചർച്ച തുടരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സഹായകരമാകുമെന്നും അത് പുതിയ ചിന്തകളെയും അറിവുകളെയും പുറത്തേക്ക് കൊണ്ടുവരുവാൻ സഹായിക്കുമെന്ന് കരുതുന്നു ഗ്രൂപ്പിലെ ഓരോ അംഗത്തിനും ഇപ്പോൾ ആരാണ് സംസാരിക്കേണ്ടത് എപ്പോൾ സംസാരിക്കണം എന്തിന് സംസാരിക്കണം ഏത് രീതിയിൽ സംസാരിക്കണം എന്ന് ആരെങ്കിലും അല്ലെങ്കിൽ ഒരു പാനലിസ്റ്റ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾ പിന്തുടരണം ജിഡി വളരെ ഘടനാപരമല്ലാത്തത് ആണെന്നും സംവാദങ്ങൾ വളരെ ഘടനാപരമായതാണ് എന്നും നിങ്ങൾ മനസ്സിലാക്കണം കാരണം യഥാർത്ഥത്തിൽ അനുകൂലമായി സംസാരിക്കുന്നവരെയും പ്രതികൂലമായി സംസാരിക്കുന്നവരെയും തരംതിരിച്ചിട്ടുണ്ട് എന്നാൽ ഒരു ജിഡിയിൽ ഇങ്ങനെയല്ല അത് ഘടനാപരമല്ല എന്തുകൊണ്ടാണ് ഘടനയില്ലാത്തത് ആരോടാണ് സംസാരിക്കുക എന്നതിന് ഒരു വ്യവസ്ഥയുമില്ല അതിനാൽ വിഷയം പ്രഖ്യാപിക്കുകയും നിങ്ങൾക്ക് കുറച്ച് മിനിറ്റ് നൽകുകയും ചെയ്യുന്നു എന്നിട്ട് ചർച്ചകൾ ആരംഭിക്കുന്നു ആരാണ് ആദ്യം സംസാരിക്കുകയെന്നതാണ് നിങ്ങൾഅടുത്തതായി ചിന്തിക്കുന്നത് അല്ലെ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ് ആർക്കും ഉത്തരം നൽകാൻ കഴിയില്ല അതിനാൽ വിഷയം പ്രഖ്യാപിക്കുകയും നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള സമയം നൽകുകയും അത് അവസാനിക്കുകയും ചെയ്യുമ്പോൾ ചർച്ച ആരംഭിക്കേണ്ടതുണ്ട് ചർച്ച ആരംഭിക്കുമ്പോൾ ഗ്രൂപ്പിൽ നിന്ന് ആരെയെങ്കിലും നിങ്ങൾ കണ്ടെത്തും അവർ ചർച്ച ആരംഭിക്കും എന്തുകൊണ്ടാണ് ഞാൻ ജിഡി ഘടനാപരമല്ലെന്നും സംവാദങ്ങൾ ഘടനാപരമാണെന്നും പറയുന്നത് എന്നുവെച്ചാൽ സംവാദങ്ങളിൽ പങ്കെടുക്കുന്നവർ സംസാരിക്കുന്നത് തുടരുമെന്ന് നിങ്ങൾ കണ്ടെത്തും ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അതേ ക്രമം പാലിക്കണം എന്നാണ് ഇവിടെ അത്തരം വ്യവസ്ഥകളൊന്നുമില്ല ജിഡിയിൽ ഒരു കാഠിന്യവും അനുവദനീയമല്ല ഒരു സ്ഥാനാർത്ഥി സംസാരിച്ചുതുടങ്ങിയേക്കാം ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു വീക്ഷണം ഉണ്ടായിരിക്കാം എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം അത് ഗ്രൂപ്പിലെ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾ ബോധ്യപ്പെടുന്നതായി തോന്നുകയാണെങ്കിൽ തോന്നുകയാണെങ്കിൽ തന്റെ നിലപാട് മാറ്റാൻ അദ്ദേഹത്തിന് അവസരം ലഭിക്കും ജിഡി രണ്ട് തരത്തിലാകാമെന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ് ഒന്ന് വിഷയം ജിഡി വിഷയവും മറ്റൊന്ന് കേസ് ജിഡിയുമായിരിക്കാം രണ്ടും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് പ്രത്യേകിച്ചും അത് തീരുമാനിക്കുന്നത് ഓർഗനൈസേഷനുകളാണ് അവർക്ക് എന്ത് തരം ജിഡി വേണം എന്ന് തീരുമാനിക്കാം അവർ നിങ്ങൾക്ക് ഒരു കേസ് ജിഡി നൽകാം ചില സാഹചര്യത്തിൽ അവർ നിങ്ങൾക്ക് ഒരു അച്ചടിച്ച കേസ് നൽകും കേസ് വിശദമായി നൽകും അതായത് ഇത് യഥാർത്ഥ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ടതായിരിക്കും ചിലപ്പോൾ അവ നിങ്ങൾക്ക് ഒരുതരം ഭാവനാത്മക കേസും നൽകാം അവർ നിങ്ങൾക്ക് ഒരു അച്ചടിച്ച കേസ് നൽകുമ്പോഴാണ് ചോദ്യം നിങ്ങൾ ചർച്ച ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നു സ്വാഭാവികമായും ആളുകൾ കേസിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും തുടർന്ന് അവർ അതുമായി മുന്നോട്ടുവരും എന്നാൽ ഒരു ജിഡിവിഷയത്തിൽ ജിഡി വിഷയം പ്രഖ്യാപിച്ചു വിഷയം വളരെ വ്യക്തമാണ് എന്നാൽ കേസ് ഒരുതരം വ്യാഖ്യാനമായിരിക്കാം കുറച്ച് സംഗ്രഹം നൽകും ഇത് യഥാർത്ഥത്തിൽ സ്ഥാനാർത്ഥിക്ക് പ്രയോജനകരമാണ് ഈ സ്ഥാനാർത്ഥികളെല്ലാം ഒടുവിൽ ഒരു പരിഹാരത്തിലേക്ക് വരുമെന്ന ലക്ഷ്യത്തോടെയാണ് ഇവിടെ കേസ് നൽകിയിരിക്കുന്നത് നിങ്ങളുടെ വിശകലന വൈദഗ്ദ്ധ്യം കാണാൻ അവർ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ നിർണ്ണായക കഴിവുകൾ കാണാൻ അവർ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ യുക്തിസഹമായ കഴിവ് കാണാൻ അവർ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പെരുമാറ്റം കാണാൻ അവർ ആഗ്രഹിക്കുന്നു അതിൽ നിരവധി ഘടകങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് അതിനാൽ കേസ് സാഹചര്യത്തിന്റെ ഒരു വ്യാഖ്യാനമായിരിക്കാം കേസ് ജിഡി അവസാനിക്കുമ്പോഴേക്കും ചില പരിഹാരങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കുന്നതിനായി ഗ്രൂപ്പ് ഒരു പരിഹാരത്തിലേക്ക് വരും എന്നതാണ് പ്രതീക്ഷ മാത്രമല്ല ഈ കേസ് എങ്ങനെ പരിഹരിക്കാമെന്നതിനുള്ള ചില നിർദ്ദേശങ്ങളും വഴികളും മാർഗങ്ങളും അവർക്ക് നൽകാൻ കഴിയും എന്നാൽ ജിഡി വിഷയത്തിൽ ഇത് ഘടനാപരമല്ലാത്തതിനാൽ നിങ്ങൾക്കറിയാമോ ഞാൻ ഒരു കാഴ്ചപ്പാട് മുറുകെ പിടിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ കാഴ്ചപ്പാടുകളിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ബോധ്യപ്പെട്ടാൽ എനിക്ക് തോന്നുന്ന വഴക്കമാണ് ഒരു ജിഡിയുടെ മുഖമുദ്ര സ്ഥാനാർത്ഥികൾക്ക് ഒരുതരം വഴക്കമുണ്ട് നിങ്ങൾ കേസ് എല്ലാ കോണുകളിലേക്കും എല്ലാ സാധ്യതകളിലേക്കും നോക്കിയേക്കാം പിന്നീട് അവസാനമായി നിങ്ങൾക്ക് ഒരുതരം സ്വാതന്ത്ര്യമുണ്ട് മുമ്പ് നിങ്ങൾ ഒരുതരം വീക്ഷണം കാത്തുസൂക്ഷിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുതരം വീക്ഷണം ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് നിങ്ങളുടെ കാഴ്ചപ്പാടുകളിൽ മാറ്റം വരുത്താം ഭാഷയെയും ശൈലിയെയും കുറിച്ച് നിങ്ങൾ ആശ്ചര്യപ്പെട്ടേക്കാം ഏത് തരം ഭാഷ ഉണ്ടായിരിക്കണം സംവാദങ്ങളുടെ കാര്യമെടുക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ ഒരു ജഡ്ജി പോലെയാണ് പല പാനലുകൾ ആയി തിരിക്കുന്നു സംവാദങ്ങളെയും വിഭജിക്കുന്നു ഭൂരിപക്ഷം സ്ഥാനാർത്ഥികളുടെയും ഭാഷ വളരെ ആലങ്കാരികമാണെന്നും എനിക്ക് മനസ്സിലായി അതായത് വളരെ അതിശയോക്തിപരമാണ് ചില സമയങ്ങളിൽ ഒരു ജിഡിയിൽ ഇത് സാധ്യമല്ല ഇവിടെ നിങ്ങൾക്ക് ലളിതമായ ഒരു ഭാഷ ഉണ്ടായിരിക്കണം അതായത് സംക്ഷിപ്തമാണ് ഉപയോഗിച്ച വാക്കുകൾ വളരെ ഉചിതമായിരിക്കണം കാരണം ജിഡിയിലെ എല്ലാ ആളുകളും പരസ്പരം ശ്രദ്ധിക്കണം നിങ്ങൾ ശ്രദ്ധിക്കുന്നത് വരെ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാകുമോ നിങ്ങൾ മനസിലാക്കുന്നതുവരെ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാൻ കഴിയുമോ ചില കാര്യങ്ങൾ ഒഴിവാക്കാൻ കഴിയുമോ നിങ്ങൾക്ക് പരിഷ്കരിക്കാനാകില്ല അതിനാൽ മനസ്സിലാക്കൽ വളരെ പ്രധാനമാണ് കാലഹരണപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കാലഹരണപ്പെട്ട പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആഡംബരവാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ കഴിയില്ല ഇത് എന്റെ പല പ്രഭാഷണങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനാൽ ഉള്ള സമയം കൊണ്ട് ഓരോരുത്തർക്കും മനസിലാക്കാൻ കഴിയുന്ന ഭാഷ ഉപയോഗിച്ച് നിങ്ങൾ അനുനയിപ്പിക്കാൻ ശ്രമിക്കണം ബോധ്യപ്പെടുത്തുന്ന ഒരു ഭാഷ നിങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ടെന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് കാരണം ജിഡിയിലെ എല്ലാ ആളുകളും കുറച്ച് അറിവുള്ള ആളുകളാണ് നിങ്ങൾ ബോധ്യപ്പെടുത്തുന്ന ഭാഷ ഉപയോഗിക്കാൻ പോകുകയാണെങ്കിൽ ഗ്രൂപ്പിലെ മറ്റ് അംഗങ്ങളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ നിങ്ങളുടെ ആശയങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഉൾപ്പെടുത്തുവാൻ കഴിയും അതിനാൽ ഭാഷയുടെ ഉപയോഗത്തിൽ നിങ്ങൾ സ്വയം പരിമിതപ്പെടുത്തേണ്ടതുണ്ട് അത് വളരെ ബുദ്ധിമുട്ടുള്ളതും വാക്കുകൾ ആകരുത് അവ സെസ്ക്വിപെഡാലിയൻ ആണ് അതിനാൽ ഇങ്ങനെയുള്ളവ ഒരു ജിഡിയിൽ സ്വാഗതം ചെയ്യപ്പെടുന്നില്ല നിങ്ങൾ എങ്ങനെ ആരംഭിക്കുന്നുവെന്നതും ചോദ്യമായിരിക്കാം ജിഡി വിഷയം പ്രഖ്യാപിച്ചുവെന്നും നിങ്ങൾ ആരംഭിക്കാൻ പോകുന്നുവെന്നും കരുതുക ആരാണ് ആരംഭിക്കുകയെന്ന് എല്ലാവരും അങ്ങോട്ടുമിങ്ങോട്ടും നോക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ആരാണ് പൂച്ചയ്ക്ക് മണി കെട്ടുന്നത് എന്നതുപോലെയാണ് സ്ഥിതി പക്ഷേ അങ്ങനെയല്ല ആരെങ്കിലും ആരംഭിക്കണം വീണ്ടും മറ്റൊരു കാര്യമുണ്ട് ഒരുപക്ഷേ ആരംഭിക്കുകയാണെങ്കിൽ അയാൾക്ക് കൂടുതൽ മാർക്ക് നൽകും അദ്ദേഹത്തെ മികച്ചതായി റേറ്റുചെയ്യും അത് ശരിയാണ് കാരണം എല്ലാവരും ഒരേ സമയം സംസാരിച്ചു തുടങ്ങിയാൽ അത് യഥാർത്ഥത്തിൽ ഒരു കൊക്കോഫോണിയായി മാറും അത് വളരെ ശബ്ദം ഏറിയ സാഹചര്യമായി മാറും അതിൽ നിന്ന് ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ല ശബ്ദം ഉണ്ടായിരിക്കണം പക്ഷേ ഈ ശബ്ദം പോസിറ്റീവ് ആയിരിക്കണം കൂടുതൽ വാദപ്രതിവാദങ്ങളില്ലാത്ത ഒരു ചർച്ച ഉണ്ടായിരിക്കണം ചില സമയങ്ങളിൽ ആളുകൾ വാദിക്കുമ്പോൾ അവർ ഉപയോഗിക്കുന്ന ഭാഷ ഗ്രൂപ്പിലെ മറ്റ് ചില അംഗങ്ങളെ വേദനിപ്പിച്ചേക്കാം എന്ന വസ്തുതയും അവർ മറക്കുന്നു അതിനാൽ നിങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വയ്ക്കാൻ പോകുന്നുവെന്ന് കരുതുക ചിലപ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ വളരെ ശക്തമായി മുന്നോട്ട് വയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എനിക്ക് ശക്തമായി തോന്നുന്നു ഞാൻ വിശ്വസിക്കുന്നു എന്നിങ്ങനെയുള്ള ഭാഷ വളരെ മര്യാദയുള്ളതായിരിക്കണം എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് എന്റെ സുഹൃത്ത് മിസ്റ്റർ എക്സ് എക്സ് പറയുന്നത് എനിക്ക് ബോധ്യമുണ്ട് എന്നൊക്കെ നമുക്ക് പറയാം നിങ്ങളിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തുന്ന സാഹചര്യങ്ങളുണ്ട് കൂടുതൽ അംഗങ്ങളുള്ളതിനാൽ പൊരുത്തക്കേടുകൾ ഉടലെടുക്കും അതിനാൽ പൊരുത്തക്കേടുകൾ ഉണ്ടാകുമെങ്കിലും സംഘർഷം ലഘൂകരിക്കാൻ ശ്രമിക്കുന്ന ആരെങ്കിലും ഉണ്ടാവും അതാണ് ഒരു നേതാവ് എന്നാൽ ഇവിടെ നിയുക്ത നേതാവില്ല ചില സമയങ്ങളിൽ നിങ്ങൾ നിഷ്പക്ഷരാകാൻ കഴിയുമ്പോൾ ചില സമയങ്ങളിൽ നിങ്ങളുടെ ആത്മവിശ്വാസം കാണിക്കാൻ കഴിയുന്ന സമയങ്ങളുണ്ട് നിങ്ങൾക്ക് പറയാൻ കഴിയും എനിക്ക് നല്ല ഉറപ്പുണ്ട് എനിക്ക് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട് ചില സമയങ്ങളിൽ നിങ്ങൾ ഒരുതരം നിഷ്പക്ഷത കാത്തുസൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു എന്റെ അഭിപ്രായത്തിൽ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞേക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ആരുടെയെങ്കിലും കാഴ്ചപ്പാടുകൾ സാധ്യമാകില്ലെന്ന് നിങ്ങൾക്ക് തോന്നാം അതിനാൽ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടുകളായിരിക്കാം എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും പക്ഷേ ഒരു പരിഹാരവും സാധ്യമല്ലെന്ന് തോന്നുന്ന രീതിയിൽ നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നുവെന്ന് കരുതാം ഇത് ഒരു ഗ്രൂപ്പാണെങ്കിൽ ഗ്രൂപ്പിലെ ആളുകൾക്ക് വ്യത്യാസങ്ങളുണ്ട് ചർച്ച ഉള്ളതിനാൽ ഈ വ്യത്യാസം പുറത്തുവരും നിങ്ങൾ ചർച്ചചെയ്യാൻ ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ ഭാഷയിൽ ഒരുതരം വൈവിധ്യങ്ങൾ സൃഷ്ടിക്കണമെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ വളരെ മര്യാദക്കാരനാണെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് നിങ്ങൾ ആരംഭിക്കുകയാണെങ്കിൽ ഇന്ന് അത്തരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നമ്മൾ ഒത്തുകൂടി തുടർന്ന് നിങ്ങൾ ഒരു ചെറിയ വിശദാംശങ്ങൾ നൽകുന്നു കാരണം നിങ്ങൾ പറയാൻ പോകുന്നതെന്തും നിങ്ങൾ പിന്തുണയ്ക്കാൻ പോകുന്ന കാര്യം ആയിരിക്കും ഞാൻ ഒരു കാര്യം ഓർക്കുന്നു ഞാൻ കരുതുന്ന പ്രശ്നം പരിഗണിക്കേണ്ടത് പ്രധാനമാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അതുപോലുള്ള നിങ്ങളുടെ ചോദ്യം ഒരു ജിഡിയിൽ ഉണ്ടായേക്കാം നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ പിന്തുണയ്ക്കുന്ന ചില സ്ഥാനാർത്ഥികളുണ്ട് ചില സ്ഥാനാർത്ഥികൾ നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ എതിർക്കും അതിനാൽ നിങ്ങളുടെ പിന്തുണക്കാരൻ ആരാണ് നിങ്ങളുടെ എതിരാളികൾ ആരാണെന്ന് നിങ്ങൾ കണ്ടെത്തണം നിങ്ങളുടെ പോയിന്റ് ഇതിനകം പറഞ്ഞിട്ടുണ്ടെന്നും നിങ്ങൾ പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഈ വിഷയത്തിൽ മോഹൻ പറയുന്നതിനോട് ഞാൻ പൂർണമായും യോജിക്കുന്നുവെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും ഒരുപക്ഷേ നമ്മൾക്ക് ഒരു പടി കൂടി കടന്ന് ഈ പ്രശ്നത്തിന്റെ ശാഖകൾ കണ്ടെത്താം ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഭാഷ ഉപയോഗിക്കുന്ന രീതിയാണ് അല്ലെങ്കിൽ ഇത് ഞാൻ ചിന്തിക്കുന്നതും ആണെന്ന് നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ചിലപ്പോൾ ഒരു വ്യക്തിക്ക് ബോധ്യപ്പെടാൻ പോകുന്നില്ലെന്ന് നിങ്ങൾ കണ്ടെത്തും കാരണം ബോധ്യപ്പെടാൻ തോന്നാത്ത ധാരാളം ആളുകൾ ഉണ്ട് അതിനാൽ അത്തരമൊരു സാഹചര്യത്തിൽ അവർ എന്തുചെയ്യും മുഴുവൻ ചർച്ചയിലും അവർ യഥാർത്ഥത്തിൽ ഒരുതരം റക്കസ് സൃഷ്ടിക്കാൻ ശ്രമിക്കും അവർ സ്വന്തം ഭാഗം ഉൾപ്പെടുത്താൻ ശ്രമിക്കും അത്തരമൊരു സാഹചര്യത്തിൽ ഒരു റോൾ നടപ്പാക്കേണ്ട ചില ആളുകളുണ്ട് ഏത് സാഹചര്യത്തിലും ആർക്കൊക്കെ ഈ റോൾ എടുക്കാൻ പറ്റുമെന്ന് നിശ്ചയിച്ചിട്ടില്ല വിഷയത്തിൽ ഉറച്ചുനിൽക്കാൻ കഴിയുമോ എന്ന് നമ്മൾക്ക് എല്ലായ്പ്പോഴും പറയാൻ കഴിയും ഒരുപക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുന്നുണ്ടെന്ന് ഞാൻ ഭയപ്പെടുന്നു നമ്മൾ ഒരുപക്ഷേ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുകയാണ് നമ്മൾക്ക് യഥാർത്ഥ ചർച്ചാ ഘട്ടത്തിലേക്ക് വരാം ചർച്ചയെ അതിന്റെ കേന്ദ്രത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ നിങ്ങളെ സഹായിക്കുന്ന ചില വഴികളാണിതെന്നാണ് ഞാൻ അർത്ഥമാക്കുന്നു കാരണം ചില സമയങ്ങളിൽ ആളുകൾ വഴിതെറ്റിപ്പോകുകയും പിന്നീട് അവർ എന്തെങ്കിലും സംസാരിക്കുകയും ചെയ്യുന്നു ചിലപ്പോൾ ചില വ്യക്തി പറയുകയും നിങ്ങൾ അവനെ അല്ലെങ്കിൽ അവളെ ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്നതും ഇല്ല നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അത് വളരെ രസകരമാണെന്ന് പറയാൻ കഴിയും പക്ഷേ ഇത് വാസ്തവത്തിൽ ശരിയാണെന്ന് ആണെന്ന് ഞാൻ കരുതുന്നില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് ചർച്ച കൊണ്ടുവരാൻ കഴിയുക എന്നാണ് ജിഡിയുടെ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ ഇതിനകം സംസാരിച്ചു ധാരാളം ആളുകൾ വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളതിനാൽ അവരുടെ കാഴ്ചകൾ വൈവിധ്യപൂർണ്ണമാണ് അതിനാൽ സ്വാഭാവികമായും അവർക്ക് കൂടുതൽ പോയിന്റുകൾ ഉണ്ടാകും തിരുത്തലിന്റെ ഒരുതരം അന്തർനിർമ്മിത സംവിധാനം ജിഡിയിൽ ലഭിച്ചിട്ടുണ്ടെന്നതിന് ഒരു അധിക നേട്ടമുണ്ട് ചില വ്യക്തി എന്തെങ്കിലും പറയുന്നു മറ്റൊരാൾക്ക് ഇത് ഉചിതമാണെന്ന് തോന്നുന്നില്ല അതിനാൽ അവൻ അല്ലെങ്കിൽ അവൾ അത് തിരുത്താൻ ശ്രമിക്കുന്നു ഇത് ബോധ്യപ്പെടുത്തുന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾക്ക് സമ്മതിക്കാം പക്ഷേ ചില സമയങ്ങളിൽ വിയോജിക്കാനുള്ള എല്ലാ അവകാശങ്ങളും നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ വ്യക്തിപരമായ കാഴ്ചപ്പാടായി എനിക്ക് തോന്നിയേക്കാമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും ഇത് കാര്യങ്ങൾ നോക്കാനുള്ള എന്റെ കാഴ്ചപ്പാടാണ് ആളുകളെ ഉന്മൂലനം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ആളുകളെ ഹ്രസ്വമായി ലിസ്റ്റുചെയ്യുന്നതിനോ ഇത് എങ്ങനെ സഹായകമാകുമെന്നതാണ് ചോദ്യം ചിലപ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ജിഡി മികച്ച ചില പരിഹാരങ്ങൾ ആണ് കൊണ്ടുവരുന്നതെന്ന് നിങ്ങൾ കണ്ടെത്തും മാത്രമല്ല ഇത് ആളുകളെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ജിഡിയിൽ പങ്കെടുക്കാൻ പോകുന്ന ഒരു സ്ഥാനാർത്ഥിയെന്ന നിലയിൽ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ കൈവശം വയ്ക്കണമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ആദ്യത്തേത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് കാരണം ജിഡിയുടെ വിഷയം എന്തുവേണേലും ആയിരിക്കാം അതിനാൽ നിങ്ങൾക്ക് ഒരുതരം അവബോധം ആവശ്യമാണ് ഈ അവബോധം വളരെ പ്രധാനമാണ് നിങ്ങൾക്ക് ഒരുതരം യുക്തിസഹമായ കഴിവ് ഉണ്ടായിരിക്കണം നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് പറയുന്നത് വെറുതെയല്ല എന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ എന്തെങ്കിലും പ്രസ്താവിച്ചാൽ പക്ഷേ നിങ്ങൾ അത് വളരെ യുക്തിസഹമായി പ്രസ്താവിക്കണം അതിനാൽ നിങ്ങൾ വസ്തുതകളെ പിന്തുണയ്ക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത് എന്നതിന് ചില ന്യായവാദങ്ങൾ നൽകേണ്ടതുണ്ട് ടീമിൽ നിങ്ങൾ ചർച്ച ചെയ്ത രീതിയും നിങ്ങളുടെ പെരുമാറ്റം വിലയിരുത്തപ്പെടുന്നു നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്ന് മനുഷ്യരെന്ന നിലയിൽ നമ്മൾ ചിലപ്പോൾ വികാരാധീനരാകാം പക്ഷേ അത് മാറ്റിനിർത്തപ്പെടണം ഇത് വൈകാരികമായിരിക്കാനുള്ള ചോദ്യമല്ല നിങ്ങളുടേതായ കാഴ്ചപ്പാട് നിങ്ങൾ പ്രസ്താവിക്കേണ്ടതുണ്ട് പക്ഷേ നിങ്ങളുടെ മോശം പെരുമാറ്റത്തിന്റെ വിലയിലോ മോശമായ രീതിയിലോ അല്ല നിങ്ങളുടെ പെരുമാറ്റം ഗ്രൂപ്പിലെ ഓരോ അംഗത്തിനും നിങ്ങൾ നന്നായി പെരുമാറുന്നുവെന്ന് തോന്നുന്ന രീതിയിൽ കാണിക്കേണ്ടതുണ്ട് ഗ്രൂപ്പ് ഡൈനാമിക്സ് യഥാർത്ഥത്തിൽ ഉള്ളടക്കത്തേക്കാൾ പ്രധാനമാണ് നിങ്ങൾക്ക് മറ്റെന്താണ് അധികമായി ഉണ്ടായിരിക്കേണ്ടത് ഞാൻ ഉദ്ദേശിക്കുന്നത് മുൻകൈ വളരെ പ്രധാനമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആരെങ്കിലും ആരംഭിക്കേണ്ടതുണ്ട് പിന്നെ പ്രചോദനം ആളുകൾ നിങ്ങളുടെ പ്രചോദനത്തിനായി ജിഡിയിൽ തീർച്ചയായും നോക്കുന്നുണ്ടാവും അവിടെ ചില ആളുകൾ ഉണ്ട് അവർ വളരെ ആക്രമണകാരികളാണ് വളരെ ആവേശത്തിലാണ് അവർക്ക് വളരെ പ്രചോദനം തോന്നുന്നവരാണ് എന്നാൽ യഥാർത്ഥത്തിൽ സ്വയം അകന്നുനിൽക്കുന്ന ചില ആളുകളുണ്ട് അവർക്ക് പ്രചോദനം കുറവാണ് പങ്കെടുക്കാൻ ശ്രമിക്കാത്ത ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ പ്രചോദപ്പിച്ച് മുന്നോട്ടു കൊണ്ടുവരണം ഗ്രൂപ്പ് അംഗങ്ങളിൽ ചിലർ ആ ഉത്തരവാദിത്തം കാണിക്കേണ്ടതുണ്ട് മാത്രമല്ല ഒരു വ്യക്തിഗത പങ്കാളിയെന്ന നിലയിൽ നിങ്ങൾ നിങ്ങളുടെ ഉറപ്പ് കാണിക്കേണ്ടതുണ്ട് ഉറച്ച നിലപാടിലൂടെ നിങ്ങൾ തികച്ചും വാദപ്രതിവാദികളായിത്തീരുമെന്നും നിങ്ങൾ അങ്ങേയറ്റത്തെ നിലപാടും എല്ലാം എടുക്കുമെന്നും ഞാൻ അർത്ഥമാക്കുന്നില്ല നിങ്ങൾ എന്ത് പറഞ്ഞാലും പൂർണ്ണ ആത്മവിശ്വാസത്തോടെ പറയുക അപ്പോൾ നിങ്ങളും ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം നിങ്ങളെ വിഭജിക്കുന്ന ഈ പാനലിസ്റ്റുകൾ അല്ലെങ്കിൽ റിക്രൂട്ടർമാർ അവർ നിങ്ങളിൽ ധാരാളം ഗുണങ്ങൾ തേടുന്നു നിങ്ങൾ എത്ര നല്ല ശ്രോതാവാണ് നിങ്ങൾ എത്ര നല്ല നേതാവാണ് എത്ര നല്ല ടീം അംഗമാണ് നിങ്ങൾ എത്ര നല്ല ഒരു തുടക്കക്കാരൻ ആണെന്നും നിങ്ങൾക്ക് എങ്ങനെ കുറച്ച് മുൻകൈയെടുക്കാൻ കഴിയുമെന്നും നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ശ്രമം കാണിക്കാനും കഴിയും എന്നൊക്കെ അവരു നോക്കും നിങ്ങൾ ഒരു ഗ്രൂപ്പ് ചർച്ചയിൽ പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് പ്രധാന വേഷങ്ങൾ ചെയ്യാനുണ്ടെന്ന് ഓർമ്മിക്കുക ഒന്നാമത്തേത് നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉത്തരവാദിത്തമുണ്ട് രണ്ടാമത്തേത് എന്താണെന്നുവെച്ചാൽ നിങ്ങൾക്ക് ഒരു വ്യക്തിഗത ഉത്തരവാദിത്തവുമുണ്ട് ഒരു ജിഡിയിൽ പങ്കെടുക്കുന്ന ആളുകൾ അവർ രണ്ട് ഉത്തരവാദിത്തങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം അതായത് അവർ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കണം ഒരു പങ്കാളിയെന്ന നിലയിൽ നിങ്ങൾക്ക് ഒരു വ്യക്തിഗത ഉത്തരവാദിത്തമുണ്ട് നിങ്ങളുടെ വ്യക്തിപരമായ ഉത്തരവാദിത്തം സംസാരിക്കുക അതുപോലെതന്നെ നന്നായി പെരുമാറുക എന്നതാണ് നിങ്ങളുടെ വ്യക്തിഗത ഉത്തരവാദിത്തവും ശ്രദ്ധിക്കേണ്ടതാണ് എനിക്ക് സംഭാവന നൽകാൻ ഒന്നുമില്ലെന്ന് ആളുകൾ പലപ്പോഴും പറയാറുണ്ട് ഒരു ഗ്രൂപ്പ് ചർച്ചയിലൂടെ എന്റെ ചില വിദ്യാർത്ഥികളെ വിഭജിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്കറിയാം അവർ പറയുന്നു സർ എനിക്ക് ഒരുപാട് അറിയാമായിരുന്നു പക്ഷേ എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഗ്രൂപ്പ് ചർച്ചയിൽ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ വരെ നിങ്ങൾ സംസാരിക്കില്ല എന്നതാണ് അതിനാൽ നിങ്ങൾ നിങ്ങളുടെ താൽപ്പര്യം കാണിക്കണം നിങ്ങളുടെ താൽപ്പര്യം കാണിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം നമുക്കെല്ലാവർക്കും എല്ലായ്പ്പോഴും വളരെയധികം അറിവുകളില്ല എന്നാൽ മറ്റുള്ളവർ സ്വാഭാവികമായും പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ സംഭാവന ചെയ്യും കാരണം പാനലിസ്റ്റുകൾ അവർ വളരെയധികം കാര്യങ്ങൾ നോക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉത്തരവാദിത്തമുണ്ട് ഗ്രൂപ്പിന്റെ ലക്ഷ്യങ്ങളിൽ നിങ്ങൾ സ്വയം പ്രതിജ്ഞാബദ്ധരാണ് എന്നതാണ് നിങ്ങളുടെ ഗ്രൂപ്പ് ഉത്തരവാദിത്തം പങ്കെടുക്കുന്നവരെല്ലാം പ്രകടനം നടത്തുന്ന വളരെ സൌഹാർദ്ദപരമായ രീതിയിൽ വളരെ നല്ല അന്തരീക്ഷത്തിൽ ഒരു ചർച്ച നടത്തുക എന്നതാണ് ഗ്രൂപ്പിന്റെ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ വ്യക്തിഗത നിയമനവും നിങ്ങൾ ഒരു നേതാവാണെങ്കിൽ എന്തുചെയ്യും എന്നതും നിങ്ങൾ കാണണം എന്നാൽ ഒരു നേതാവാകാൻ കഴിയില്ലെന്ന് നിങ്ങൾക്കറിയാം ഒരു വ്യക്തിയെന്ന നിലയിൽ അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ് അതിനാൽ ഒരു നല്ല മനുഷ്യനായിരിക്കുന്നതിലൂടെ ഗ്രൂപ്പിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് ഒരു വ്യക്തിഗത ഉത്തരവാദിത്തമുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഗ്രൂപ്പിനുള്ളിൽ പരസ്പരവിരുദ്ധമായ സാഹചര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളിൽ ചിലർ ആ പ്രതിസന്ധി പരിഹരിക്കാനോ ചർച്ചയെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനോ മുന്നോട്ട് വരണം ആളുകൾ പങ്കെടുക്കേണ്ട മുഴുവൻ പങ്കാളിത്തവും സ്വിംഗിലാണ് എന്നതും കാണുക ഒരു നിഷ്ക്രിയ സ്പീക്കർ ഉണ്ടെങ്കിലോ ഗ്രൂപ്പിൽ ഒരു നിഷ്ക്രിയ പങ്കാളിയുണ്ടെങ്കിലോ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് കാരണം എന്തുകൊണ്ടെന്ന് ചില സമയങ്ങളിൽ ചോദ്യങ്ങളുണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെപ്പോലെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ആദ്യമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പെട്ടെന്നുതന്നെ മടിച്ചു അവൻ നിശബ്ദനായി മുഴുവൻ ഗ്രൂപ്പും യോജിച്ചതാണെന്നും തീർച്ചയായും കാണേണ്ടതുണ്ട് എന്നാൽ വ്യത്യാസങ്ങൾ പ്രത്യയശാസ്ത്രപരമാണ് വ്യക്തിഗത തലത്തിൽ വ്യത്യാസങ്ങളൊന്നുമില്ല നിങ്ങളുടെ ഗ്രൂപ്പ് പെരുമാറ്റത്തിന്റെ ആദ്യ മാനദണ്ഡം നിങ്ങളുടെ പങ്കാളിത്തമാണ് നിങ്ങളെപ്പോലെ എല്ലാവരും പങ്കെടുക്കുന്നുവെന്ന് ഉറപ്പാക്കുക നിങ്ങളുടെ സ്വന്തം പങ്കാളിത്തത്തിൽ നിന്ന് നേതൃത്വം പുറത്തുവരും നമ്മളുടെ മുൻ പ്രഭാഷണത്തിൽ പലതരം നേതൃത്വത്തെക്കുറിച്ച് നമ്മൾ ചർച്ചചെയ്തു പലതരം നേതാക്കൾ അവിടെയുണ്ട് എന്നാൽ ഇവിടെ വ്യത്യസ്തമായ ഒരു നേതാവുണ്ട് ഇതിനകം നിയുക്തനായ ഒരു നേതാവ് ഇവിടെയില്ല ഇവിടെ നേതൃത്വപരമായ റോളുകൾക്ക് മാറ്റം വരാം ആർക്കും എപ്പോൾ വേണമെങ്കിലും ഒരു നേതാവാകാം ഗ്രൂപ്പിൽ സംഘർഷമുണ്ടാകുമ്പോൾ ഗ്രൂപ്പിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ നേതൃത്വം പരീക്ഷിക്കപ്പെടുന്നു നമ്മൾ നേതൃത്വത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നേതൃത്വത്തിന് നിരവധി ഗുണങ്ങൾ ഉണ്ട് നിങ്ങൾക്കറിയാമോ ആദ്യത്തേത് ഒരു ഡ്രൈവറാണ് ഡ്രൈവർ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം ആരംഭിക്കുന്ന ആൾ എന്നാണ് അതിനാൽ ചർച്ച ആരംഭിച്ച അല്ലെങ്കിൽ ചർച്ചയ്ക്ക് തുടക്കമിട്ട എല്ലാ ഗ്രൂപ്പ് അംഗങ്ങളുടെയും പ്രവർത്തനങ്ങൾ പാനലിസ്റ്റ് പരിശോധിക്കുന്നു അതിനാൽ ഒരു നേതാവ് ഒരു ഡ്രൈവർ ആകാം ഒരു നേതാവ് സൌഹാർദ്ദപരമായി പറയുമ്പോൾ സൌഹാർദ്ദപരമായിരിക്കാം ഞാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം സംസാരിക്കും തുടർന്ന് അദ്ദേഹം നിശബ്ദനായിരിക്കും ചില സമയങ്ങളിൽ അദ്ദേഹം വളരെ നിഷ്പക്ഷനായി കാണപ്പെടുന്നു അത്തരമൊരു നേതാവിനെ സ്വീകാര്യമല്ല ഗ്രൂപ്പ് ഒരു ഏകീകൃത ഗ്രൂപ്പായി ഉയർന്നുവരുന്നുവെന്ന് നിങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട് ഒരു ജനാധിപത്യവാദിയായ നേതാവിന്റെ മറ്റൊരു ഭാഗമുണ്ട് ഒരു ജനാധിപത്യവാദി എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നേതൃത്വത്തിന്റെ ഏറ്റവും മികച്ച രൂപമാണ് ഒരു ജിഡിയിൽ പരിശീലിക്കേണ്ടത് എന്നതാണ് എല്ലാം ക്രമത്തിലാണെന്ന് കാണുന്ന ഒരാളാണ് ഡെമോക്രാറ്റ് ചിലപ്പോൾ കുഴപ്പമുണ്ടെങ്കിൽ കുഴപ്പങ്ങൾ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരുന്നത് ഒരു നേതാവിന്റെ ഉത്തരവാദിത്തമാണ് നിങ്ങൾക്ക് ബൾഡോസറുകൾ എന്ന് വിളിക്കാൻ കഴിയുന്ന മറ്റ് വിഭാഗത്തിലുള്ള നേതാക്കളുണ്ട് ഈ ആളുകൾ ബൾഡോസറുകൾ പോലെയാണ് അതിനാൽ ഈ ആളുകൾ യഥാർത്ഥത്തിൽ ഒരു ഗ്രൂപ്പിലെ ശല്യപ്പെടുത്തുന്ന ഘടകങ്ങളാണ് അത്തരമൊരു വ്യക്തി അവൻ വളരെ സ്വാർത്ഥനായിരിക്കാം അവൻ വലിച്ചിടാൻ ശ്രമിക്കും ഓരോ തവണയും തന്റെ ഭാഗം ഇടുക അത്തരമൊരു വ്യക്തി ഗ്രൂപ്പിൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു ഓരോ ഗ്രൂപ്പിലും ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന അത്തരം ആളുകളെ നിങ്ങൾ കാണും ഗ്രൂപ്പിൽ അത്തരമൊരു വ്യക്തി ഉണ്ടോയെന്നതാണ് ചോദ്യം അവരുടെ ഒഴിവാക്കാൻ ആയിട്ട് സാധിക്കും അത് എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ ചർച്ച ചെയ്യും കാരണം ഈ ആളുകൾ ഒന്നുകിൽ ശാരീരികമായി ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു അവർ ശബ്ദത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ നിങ്ങൾ അത് കണ്ടെത്തും അവർക്ക് യുക്തിയില്ല അവരുടെ ചിന്താഗതിയിൽ നിങ്ങൾ എന്തെങ്കിലും തകരാറുകൾ കണ്ടെത്തിയാൽ അവരുടെ യുക്തിയിൽ ചില ബലഹീനത നിങ്ങൾ കണ്ടെത്തിയാൽ സ്വാഭാവികമായും അവരുടെ ആധിപത്യത്തിൽ കുറവുണ്ടാവും കാരണം ഇവിടെ അവർ ആരും പോരാടാൻ വന്നിട്ടില്ല എല്ലാവരും ചർച്ചചെയ്യാൻ എത്തിയതാണ് അതിനാൽ സമയം എങ്ങനെ തുല്യമായി പങ്കിടുന്നു എന്നത് കാണേണ്ടത് നേതാവിന്റെ പങ്ക് കൂടിയാണ് അടുത്തത് ഒരു ജിഡിക്ക് എത്ര സമയം നൽകി എന്നതാണ് ചോദ്യം ഇത് ഓർഗനൈസുചെയ്യുന്ന ആളുകൾ പൂർണ്ണമായും തീരുമാനിക്കും എന്നാൽ മിക്ക സാഹചര്യങ്ങളിലും ഒന്നുകിൽ ജിഡി 15 മിനിറ്റ് ചിലപ്പോൾ അത് 20 മിനിറ്റ് ചിലപ്പോൾ ഇത് 25 മിനിറ്റ് എന്നിങ്ങനെയാണ് ഇനിയുള്ളത് നേതാവിനുള്ളതാണ് ഒരു വ്യക്തിയെന്ന നിലയിൽ ഈ സമയത്ത് എല്ലാവരും ഉണ്ടായിരുന്നതായി നിങ്ങൾ കാണണം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കഴിയണം ചില സമയങ്ങളിൽ ആളുകൾ ഒരു തരം ആശയങ്ങൾ പ്രവർത്തിപ്പിക്കുകയും സമയത്തിന് മുമ്പ് അത് പൂർത്തിയാക്കാൻ അവർക്ക് തോന്നുകയും ചെയ്യുന്നു അതിനർത്ഥം അവർക്ക് വളരെയധികം പറയാനില്ലായിരുന്നു എന്നാണ് ഒരു ജിഡിയിൽ അപകടകരമായ നിരവധി കാര്യങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ അവിടെ ആളുകൾക്ക് ദീർഘനേരം തുടരാൻ കഴിയില്ലെന്ന് തോന്നുന്നു സമയവും അവർ മുമ്പുതന്നെ പൂർത്തിയാക്കി എന്നാൽ അങ്ങനെയാണെങ്കിൽപ്പോലും നിങ്ങൾക്ക് ഗ്രൂപ്പ് പെരുമാറ്റവും നിങ്ങളുടെ വ്യക്തിഗത പെരുമാറ്റവും സമന്വയിപ്പിക്കുന്നുണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള കഴിവ് പാനലിസ്റ്റിന് ഉണ്ട് ഒരു വ്യക്തിയെന്ന നിലയിൽ നിങ്ങൾക്ക് ആശയങ്ങളും പെരുമാറ്റവും ഉണ്ടായിരിക്കണം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം നിങ്ങളുടെ ശരീരഭാഷയാണ് ഏറ്റവും പ്രധാനം നിങ്ങളുടെ ശരീരഭാഷ എന്താണ് ശരീരഭാഷയെക്കുറിച്ച് നമ്മൾ വളരെയധികം ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്നാൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോഴെല്ലാം നമ്മളുടെ ശരീരഭാഷയിലൂടെ അത് പ്രതികരിക്കാറുണ്ട് ശരീരഭാഷ ഒരിക്കലും നെഗറ്റീവ് ആയിരിക്കരുത് നിങ്ങൾ സംസാരിക്കുന്ന ഒരു കാര്യം ആരെങ്കിലും എതിർക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ കണ്ണുകളിലൂടെ മുഖത്തിലൂടെ നിങ്ങൾ ഇരിക്കുന്ന രീതിയിലൂടെ വളരെ കൃത്യതയോടെ എടുക്കേണ്ടതുണ്ട് നിങ്ങൾ ഗ്രൂപ്പിനോട് പൂർണമായും പ്രതിജ്ഞാബദ്ധമാണ് ആണ് എന്ന് കാണിക്കണം നെഗറ്റീവ് ബോഡി ലാംഗ്വേജ് കാണിക്കരുത് കാരണം ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങൾക്കും പരസ്പരം സഹായിക്കാനും പരസ്പരം പഠിക്കാനും സഹായിക്കാമെന്ന് നമ്മൾ മുന്നേ എന്റെ പ്രിയ സുഹൃത്തുക്കളെ ഒരു ഗ്രൂപ്പ് ചർച്ചയെക്കുറിച്ചും അതിൽ ഉൾപ്പെട്ടിട്ടുള്ള വിവിധ നടപടിക്രമങ്ങളെക്കുറിച്ചും സംസാരിക്കുമ്പോൾ അതിൽ പലതരം മാനദണ്ഡങ്ങളുണ്ട് സാധാരണഗതിയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരേയും അവരുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ അനുവദിക്കുക ഒപ്പം നിങ്ങളുടെ ആശയങ്ങളും പ്രകടിപ്പിക്കുക ഒടുവിൽ എന്തെങ്കിലും ഒരുതരം പരിഹാരമായിരിക്കും അല്ലെങ്കിൽ ഒരുതരം കരാറോ അല്ലെങ്കിൽ ചില സമയങ്ങളിൽവേറൊരു സാഹചര്യവും ആയിരിക്കും വരാനിരിക്കുന്നത് ഗ്രൂപ്പുകൾക്ക് എല്ലായ്പ്പോഴും സംഭാവന ചെയ്യാനുണ്ട് ഒരു വ്യക്തിയെന്ന നിലയിൽ ആശയങ്ങളുമായി ഇടപഴകുന്ന ജിഡിയുടെ മുഴുവൻ നടപടികളിലും നിങ്ങൾക്ക് വളരെയധികം സംഭാവന നൽകാൻ കഴിയും എന്നാൽ ഓർക്കുക ധാരാളം ആളുകൾ ഉണ്ടെങ്കിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ടാകേണ്ടിവരും ഈ പൊരുത്തക്കേട് പരിഹരിക്കപ്പെടും ഒരു നേതാവിന്റെ സഹായത്തോടെ ഈ വൈരുദ്ധ്യപരമായ സാഹചര്യങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്നും ഗ്രൂപ്പ് ചർച്ചയുടെ ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് പോകാമെന്നും അടുത്ത പ്രഭാഷണത്തിൽ നമ്മൾ കാണും നല്ല ഗ്രൂപ്പുകൾ രൂപീകരിക്കുക ഗ്രൂപ്പുകളായി ആശയവിനിമയം നടത്തുക വ്യക്തിഗതമായി മാത്രമല്ല ഒരു കൂട്ടായ ടീം അംഗമായും ആശയവിനിമയം നടത്തുക കാരണം നിങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ട് ചർച്ച ചെയ്യുക എന്നതാണ് പൊതു ലക്ഷ്യം വളരെ നന്ദി